ചർച്ചയുടെ അടുത്ത വിഷയം ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ് Limits Fits and Tolerances എന്നിവയാണ് മെട്രോളജിയുടെ വിഷയത്തിൽ ചർച്ചചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് തുടക്കത്തിൽ ആളുകൾ കാര്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഇതെല്ലാം മാസ് കസ്റ്റമൈസേഷൻ ആയിരുന്നു ഉപഭോക്താവിനെ ഒരു നിർമ്മാതാവ് കണ്ടുമുട്ടുകയും അവന്റെ ആവശ്യകതകൾ എല്ലാം മനസ്സിലാക്കുന്നു അദ്ദേഹം അതിലേക്ക് കൂടുതൽ ചിന്തിക്കുന്നു അദ്ദേഹം ആ ചിന്താ പ്രക്രിയയെ താത്കാലിക ഡ്രോയിംഗാക്കി മാറ്റുന്നു ആ ഡ്രോയിംഗിനെ അടിസ്ഥാനമാക്കി ഒരു ഉൽപ്പന്നം നിർമ്മിച്ച് അത് ഉപഭോക്താവിന് തിരികെ നൽകാൻ അദ്ദേഹം ശ്രമിക്കുന്നു അതിന്റെ പ്രയോജനം എന്താണ് ഉപഭോക്തൃ അഭിപ്രായം കേൾക്കാനും നിർമ്മാതാവിന് ഉപഭോക്താവിന് താൽപ്പര്യമുള്ളവ ഇഷ്ടാനുസൃതമാക്കാനും കഴിയും എന്നതാണ് ഇതിന്റെ പ്രയോജനം എന്നാൽ ഈ സിസ്റ്റത്തിന്റെ പോരായ്മ എന്താണ് വൻതോതിൽ ഉൽപാദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് ഈ വ്യവസ്ഥയുടെ പോരായ്മ രണ്ടാമത്തെ കാര്യം ഉപഭോക്തൃ ആവശ്യങ്ങൾ മനസിലാക്കാനും അതിനെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റാനും അവർ ധാരാളം ആർട്ടിസ്റ്റുകൾ ഇല്ലായിരുന്നു അതിനാൽ വളരെ കഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു അതിൽ ഉൽപാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറവാണ് അവർ ആവശ്യപ്പെടുന്ന നൈപുണ്യം ഉള്ള വിദഗ്ദ്ധരുടെ എണ്ണം കുറവാണ് അതിനർത്ഥം ഇന്ന് നിർമ്മാതാവ് ഡ്രോയിംഗിൽ നിന്ന് ഒരു ഉൽപ്പന്നമായി പരിവർത്തനം ചെയ്യുന്നതുവരെ അയാൾ എല്ലാ പ്രക്രിയയും മനസ്സിലാക്കണം പിന്നെ സ്ഥിതിഗതികൾ പതുക്കെ മാറി നിർമ്മാണത്തിൽ ആളുകൾ മാസ് കസ്റ്റമൈസേഷനുപകരം മാസ് ഉൽപാദനം ആരംഭിക്കാമെന്ന് കരുതി മാസ് ഉൽപാദനത്തിൽ അവർ ചെയ്തത് അവർ ഉൽപാദനം തുടരട്ടെ എന്നിട്ട് ചെലവ് കഴിയുന്നത്ര കുറഞ്ഞതും വരട്ടെ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുക എന്നതുമാണ് ഇവിടെ ഇഷ്ടാനുസൃതമാക്കലിന് മുൻഗണന നൽകിയിരുന്നില്ല പക്ഷേ ഉൽപാദനത്തിനും കുറഞ്ഞ സാമ്പത്തിക വിലയ്ക്ക് ഉൽപ്പന്നം നൽകുന്നതിനും മുൻഗണന നൽകി ഇത് സംഭവിക്കുമ്പോൾ സമ്പൂർണ്ണ ഉൽപന്ന നിർമ്മാണം ഒരു കുടക്കീഴിൽ നടക്കില്ല പല കാരണങ്ങളാൽ ഒന്ന് അസംസ്കൃത വസ്തുക്കളുടെ കുറവ് പിന്നെ വൈദഗ്ധ്യത്തിന്റെ ലഭ്യത ഈ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു ആളുകൾ തീരുമാനിച്ചത് ഒരു ഡ്രോയിംഗിന് നൽകിയിരിക്കുന്ന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കാമെന്നും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു അസംബ്ലി നടക്കണമെങ്കിൽ ഒരു കൌണ്ടർ പാത്ത് ഉണ്ടായിരിക്കണം അതിലേക്ക് പാതയും നിർമ്മിക്കപ്പെടും ഒരു പ്രത്യേക ഡ്രോയിംഗ് വഴി ആണ് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു രാജ്യത്ത് നിന്നോ ഒരു ഫാക്ടറിയിൽ നിന്നോ മെയിൽ ഭാഗം എടുക്കാം മറ്റേതെങ്കിലും ഫാക്ടറിയിൽ നിന്ന് ഒരു ഫീമെയിൽ ഭാഗം എടുക്കാം ഈ രണ്ട് കാര്യങ്ങളും ഒരു പ്രത്യേക ഡ്രോയിംഗുമായി പൊരുത്തപ്പെടുന്നു ഡ്രോയിംഗ് നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞു തുടർന്ന് അവർക്ക് നിർമ്മിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥലത്ത് അസംബ്ലി സംഭവിക്കാം അതിനാൽ മാസ് കസ്റ്റമൈസേഷനിൽ നിന്ന് ആളുകൾ മാസ് ഉൽപാദനത്തിലേക്ക് നീങ്ങുന്നു മാസ് ഉൽപാദനത്തിൽ ഡ്രോയിംഗ് ശരിയായി നിർമ്മിക്കേണ്ടതുണ്ടെന്നും ഡ്രോയിംഗിൽ നൽകിയിട്ടുള്ളതെല്ലാം നിർമ്മിക്കേണ്ടതുണ്ട് ഉൽപ്പന്നത്തിലെ ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഭാഗത്തെക്കുറിച്ച് മാത്രം വിഷമിക്കുന്നു ഇപ്പോൾ അവർ ഒരു ഡ്രോയിംഗ് കണ്ടുകഴിഞ്ഞാൽ അവർ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ നിർമ്മാതാവ് തന്റെ ഉൽപ്പാദിപ്പിച്ച ഭാഗം ആവശ്യകത നിറവേറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് സാധൂകരിക്കേണ്ടത് ഉത്തരവാദിത്തമാണ് അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ് Limits Fits and Tolerances എന്താണെന്ന് മനസ്സിലാക്കണം ശരി ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ഉൽപ്പന്നം തായ്വാനിൽ ഒത്തുചേരുന്നു ഭാഗങ്ങൾ ഇന്ത്യയിലും ചൈനയിലും ഉൽപാദിപ്പിക്കുന്നു ചില ഭാഗങ്ങൾ ജപ്പാനിലും യുഎസ്എയിലും ഉൽപാദിപ്പിക്കുന്നു ഇവയെല്ലാം തായ്വാനിൽ ഒത്തുകൂടുകയും ഉപഭോക്താവ് ശ്രീലങ്കയിലുമാണ് നിങ്ങൾ കാണുന്ന ഒരു പ്രത്യേക ഉൽപ്പന്നത്തിനായി ഇവിടെ എല്ലാ ഭാഗങ്ങളും ഉൽപാദിപ്പിക്കപ്പെടുന്നു ഇപ്പോൾ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് വിവിധ സ്ഥലങ്ങളിൽ ഉൽപാദിപ്പിക്കുന്നത് അവയ്ക്ക് ഒരിടത്ത് ഒത്തുചേരാൻ കഴിയുന്നത് എങ്ങനെ അവ എങ്ങനെ വിതരണം ചെയ്യാൻ കഴിയും എന്നതാണ് ചോദ്യം നിങ്ങൾ നോക്കുമ്പോൾ ലോകം മുഴുവൻ ഈ സാഹചര്യത്തിലേക്ക് പോകുന്നു ഡ്രോയിംഗ് അനുസരിച്ച് ഭാഗങ്ങൾ നിർമ്മിക്കുന്നു ഉൽപാദിപ്പിക്കുന്ന എല്ലാ ഭാഗങ്ങളും കൂട്ടിച്ചേർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പാക്കും ഈ ഭാഗത്തിന് ഒരു ചെറിയ ലിവറേജ് നൽകേണ്ടതുണ്ട് അത് ഉൽപാദിപ്പിക്കപ്പെടുന്നു അനുവദനീയമായ ചെറിയ പിശക് നിങ്ങൾ ഒരു ഭാഗം നിർമ്മിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ പിശകിനുള്ളിൽ സംഭവിക്കും ആ കൌണ്ടർപാർട്ടിലും ഇത് ചെയ്യുന്നു തുടർന്ന് അത് ഒത്തുചേരുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് നിർമ്മാണത്തിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ചു വൻതോതിലുള്ള ഉൽപാദനവും വിലകുറഞ്ഞ ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തി ഇന്നത്തെ രംഗം കൂടുതൽ രസകരമാണ് ആളുകൾ സംസാരിക്കുന്നത് ഉൽപ്പന്നത്തെ ഇച്ഛാനുസൃതമാക്കാം പക്ഷേ കുറഞ്ഞ സാമ്പത്തിക വിലയ്ക്ക് അവർ പുരാതന ആശയം വ്യാവസായിക വിപ്ലവ ആശയവുമായി കൂട്ടിക്കലർത്താൻ ശ്രമിക്കുകയാണ് ഇന്ന് അവർ മാസ് കസ്റ്റമൈസേഷന്റെ ഒരു പുതിയ പരിണാമവുമായി വരികയും കുറഞ്ഞ ചിലവിൽ ഭാഗങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു അത് ഒരു വലിയ വെല്ലുവിളിയാണ് മാസ് കസ്റ്റമൈസേഷൻ എന്ന് ഞാൻ പറയുമ്പോൾ ബാച്ച് വലുപ്പം നമ്മൾ സംസാരിക്കുന്നത് ഒന്ന് മാത്രമാണ് ഈ വിഷയം എല്ലാം മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനമാണ് ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം പറയുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് ആമുഖം ഉണ്ടായിരിക്കും ആമുഖത്തിന് തൊട്ടുമുമ്പ് ആളുകൾ ചോദ്യങ്ങൾ ചോദിച്ച രണ്ട് മൂന്ന് ആശയങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആ അടിസ്ഥാന 2 3 ആശയങ്ങൾ വിശദീകരിക്കട്ടെ തുടർന്ന് ഈ അധ്യായത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാം തുടർന്ന് ഇന്റർചേഞ്ച് തത്വം എന്താണെന്ന് പറയാം പേര് പോലെ തന്നെ ഭാഗങ്ങൾ പരസ്പരം മാറ്റാം തുടർന്ന് ഒരു അസംബ്ലിയിലേക്ക് കൊണ്ടുപോകാം തുടർന്ന് മറ്റ് കാര്യങ്ങൾ ഒരു സെലക്ടീവ് അസംബ്ലി പിന്നീട് ടോളറൻസ് വരുന്നു തുടർന്ന് ഞാൻ ഫിറ്റിനെക്കുറിച്ച് ചർച്ചചെയ്യാൻ ശ്രമിക്കും തുടർന്ന് ഞാൻ അവസാനമായി ലിമിറ്റ്കളെക്കുറിച്ചും ഫിറ്റുകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ശ്രമിക്കും ശരി വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി കൃത്യത സൂക്ഷ്മത എന്നീ അടിസ്ഥാന ആശയം ആദ്യം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് നിർവചനം മാത്രം നൽകിയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു കണക്കുമായി ബന്ധപ്പെട്ട് ഞാൻ അത് നൽകും അതുവഴി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാം അതിനാൽ കൃത്യത സൂക്ഷ്മത ഈ 2 പദങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് പക്ഷേ എഞ്ചിനീയറുടെ ഭാഷയിൽ ഇത് പരസ്പരം മാറ്റാൻ കഴിയില്ല പ്രത്യേകിച്ചും നിർമ്മാണ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പദങ്ങൾ പരസ്പരം കൈമാറാൻ കഴിയില്ല ഈ 2 പദങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട് അതിനാൽ ആശയം ബുൾസ് ഐ bull's eye കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കാം ഒരു ഷൂട്ടർ ഉണ്ട് ഒരു ഷൂട്ടർ ബുൾസ് ഐ bull's eye ശ്രമിക്കുന്നു അവൻ കളിക്കാൻ ശ്രമിക്കുകയാണ് മനസിലാക്കുന്നതിനുള്ള ലാളിത്യത്തിനായി ആ അവസ്ഥ സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഇതാ ബുൾസ് ഐ ശരി അതിനാൽ ഷൂട്ടർ ഇവിടെ എല്ലാം അടിച്ചാൽ ഒരു സാധ്യതയുണ്ടാകാം അടുത്ത സാധ്യത ഉണ്ടാകാം ബുൾസ് ഐ ഇവിടെയുണ്ട് ഷൂട്ടർ ഇവിടെ എല്ലാം കൃത്യമായി കേന്ദ്രത്തിൽ അടിക്കുന്നു ശരി മൂന്നാമത്തെ വ്യവസ്ഥ ഇത് ഒരു ബുൾസ് ഐ അവൻ എല്ലായിടത്തും അടിക്കാൻ ശ്രമിക്കുന്ന ബുൾസ് ഐ ൽ അടിക്കുന്നു അവസാനത്തേത് ബുൾസ് ഐയുടെ ഉള്ളിൽ കയറാൻ ശ്രമിക്കുന്നു അടിക്കാൻ ശ്രമിക്കുന്നു ഈ അവസ്ഥ ഒന്നുമല്ല പക്ഷെ അവൻ വളരെ സൂക്ഷ്മതയുള്ളവനാണ് എന്നാൽ കൃത്യതയില്ലാത്തവനാണെങ്കിൽ ഇവിടെ അവൻ വളരെ കൃത്യവും സൂക്ഷ്മവുമാണ് അവൻ കൃത്യവും സൂക്ഷ്മവുമല്ല അവസാനത്തേത് അവൻ കൃത്യമാണ് പക്ഷേ സൂക്ഷ്മമല്ല കൃത്യമല്ല ശരി അതിനാൽ ഇവിടെ അദ്ദേഹം കൃത്യമായി ഫോക്കസ് ചെയ്യുകയും അടിക്കുകയും ചെയ്യുന്നുവെന്ന് കാണുകയും അവന്റെ എല്ലാ ഷോട്ടുകളും ഇവിടെ ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഇതൊരു കേന്ദ്രമാണ് എല്ലാ ഷോട്ടുകളും കുറച്ച് ദൂരം പോകുന്നു അതിനർത്ഥം അവൻ കൃത്യതയുള്ളവനാണെന്ന് പറയാനാണ് എന്നാൽ ഒരു ചെറിയ തിരുത്തൽ ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യത കൈവരിക്കും അതേസമയം ഈ കളിക്കാരൻ വളരെ സൂക്ഷ്മതയുള്ളവനാണ് ഇവിടെ കാര്യങ്ങൾ വീഴേണ്ട സ്ഥലത്ത് പ്രോസസ്സ് അല്ലെങ്കിൽ മെഷീൻ അല്ലെങ്കിൽ ഷൂട്ടർ കൃത്യവും സൂക്ഷ്മവുമാണ് ഇത് സൂക്ഷ്മമാണെന്നും എന്നാൽ കൃത്യമല്ലെന്നും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ഇത് കൃത്യവും സൂക്ഷ്മവുമാണ് അടുത്തത് അവൻ കൃത്യമോ സൂക്ഷ്മമോ അല്ല എന്നതാണ് അവൻ പൂർണ്ണമായും പുറത്തുകടക്കുകയാണ് അവസാനത്തേത് അവൻ കൃത്യമാണ് പക്ഷേ സൂക്ഷ്മമല്ല അതിനർത്ഥം അയാൾ അതിനുള്ളിൽ അടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയാൻ കഴിയും പക്ഷേ അയാൾക്ക് കൃത്യമായി അടിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞത് ഒരു ഷൂട്ടർ നിങ്ങൾക്ക് ഒരു മെഷീൻ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാം ഒരു മെഷീന് പാത വളരെ കൃത്യമായി സൃഷ്ടിക്കാൻ കഴിയും പക്ഷേ കൃത്യമായിരിക്കേണ്ടതില്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു പിശക് എന്ന് വിളിക്കപ്പെടുന്നു കൂടാതെ പിശക് ഒന്നുതന്നെയാണെങ്കിൽ അത് അവിടെയുണ്ട് ഞങ്ങൾക്ക് ചെയ്യാനാകുന്നത് ചില പരിഷ്കാരങ്ങൾ വരുത്തി സൂക്ഷ്മത കൃത്യതയിലേക്ക് മാറ്റാൻ കഴിയും എന്നതാണ് നിങ്ങൾ ഒരു ഷൂട്ടർ ഉദാഹരണം എടുക്കുമ്പോൾ അയാൾക്ക് ശരിയായ കണ്ണടയോ മറ്റോ നൽകേണ്ടതുണ്ട് അവന് ബുൾസ് ഐ കൃത്യമായി കാണാനും അത് അടിക്കാനും കഴിയും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഘടകം നൽകാൻ ശ്രമിക്കാം അല്ലെങ്കിൽ ഇത് നിർമ്മിക്കാനുള്ള ഉപകരണം മാറ്റാൻ ശ്രമിക്കാം ഇത് വളരെ നന്നായി അംഗീകരിക്കപ്പെടുമ്പോൾ ഇതാണ് വളരെ സൂക്ഷ്മമായും കൃത്യമായും ഉള്ളിടത്ത് ഇത് വളരെ സ്വീകാര്യമല്ല കാരണം ഇത് പൂർണ്ണമായും സ്വീകാര്യമല്ല കാരണം ഉൽപാദിപ്പിക്കുന്നതെന്തും ഈ മെഷീനിൽ ഉൽപാദിപ്പിക്കുന്നതെന്തും സ്ക്രാപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഫയറിംഗ് എല്ലാം സ്ക്രാപ്പ് ആണ് ഇത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്ന് അത് കൃത്യമാണ് പക്ഷേ സൂക്ഷ്മമല്ല അതിനാൽ ഇവിടെ ധാരാളം ക്രമരഹിതത ഉൾപ്പെടുന്നു അതിനാൽ നാം ക്രമരഹിതം മനസിലാക്കുകയും ഇതെല്ലാം പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയും വേണം ഒരു ചെറിയ കാര്യത്തിന് കൃത്യമായ ഒന്ന് അതിനാൽ കൃത്യതയും സൂക്ഷ്മതയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുമെന്ന് വളരെ വ്യക്തമാണ് ഒരു പ്രക്രിയ കൃത്യമായിരിക്കാം സൂക്ഷ്മമായിരിക്കേണ്ടതില്ല ഒരു പ്രക്രിയ സൂക്ഷ്മമായിരിക്കാം ഈ അവസ്ഥ കൃത്യമായിരിക്കേണ്ടതില്ല ശരി കണ്ടീഷൻ എ കണ്ടീഷൻ ഞാൻ ബി ആയി ഇടും അതിനാൽ എയും നിലവിലുണ്ട് നമുക്ക് ആവശ്യമുള്ളത് ഡി നിലവിലുണ്ട് നമുക്ക് പൂർണ്ണമായും ആവശ്യമില്ലാത്തത് സി ആണ് സി ഫാഷനിൽ ഭാഗങ്ങൾ നിർമ്മിക്കുമ്പോൾ ഉടനടി മെഷീൻ റീലൂക്ക് റീസെറ്റ് തിരുത്തലുകൾ വരുത്തി അവർ അത് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു വ്യക്തമാക്കുന്നത് ഇപ്പോൾ പിശകിനുള്ള നിർവചനം നോക്കാം അതിനാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചർച്ചചെയ്തത് പിശക് എന്താണ് അളവ് മൈനസ് എന്താണ് യഥാർത്ഥ മൂല്യം എന്ന് വിഭജിച്ച് ഞാൻ ശതമാനം എന്ന് പറഞ്ഞാൽ അതിനെ 100 കൊണ്ട് ഹരിക്കുന്നു അതിനാൽ Vm അളന്ന മൂല്യവും Vt പ്രതീക്ഷിക്കുന്ന യഥാർത്ഥ മൂല്യവുമാണ് അല്ലെങ്കിൽ അത് ശരിയാണ് Error Vm Vt 100 Where Vm Measured value Vt True value ഈ പിശക് ശരിയാക്കാനും പ്രക്രിയയെ കൂടുതൽ കൃത്യതയോടെയും നിയന്ത്രണത്തിലാക്കാനും ഉപയോഗിക്കുന്ന പിശക് കണ്ടെത്താൻ ഞങ്ങൾ ശ്രമിക്കും അതിനാൽ ഒരു ഗ്രാഫ് കൂടി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി നിങ്ങൾക്ക് മനസ്സിലാക്കൻ കഴിയും നിങ്ങൾക്ക് 100 അല്ലെങ്കിൽ ടി എന്നതുമായി ബന്ധിപ്പിക്കാൻ കഴിയും ശരി മറ്റൊന്ന് ചെലവ് കൃത്യത എന്നിവയെക്കുറിച്ച് ചർച്ചചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത് പരമാവധി ഇത് മിനിമം ഇതാണ് ചെലവ് മിനിമം ഇത് പരമാവധി സാധാരണയായി ഇത് ഇതുപോലുള്ള ഒരു പ്രവണത പിന്തുടരുന്നു അതിനർത്ഥം നിങ്ങൾക്ക് വളരെ നല്ല കൃത്യമായ കാര്യം വേണമെങ്കിൽ ചെലവ് ഉയർന്നതായിരിക്കും ശരി ഇതാണ് യാഥാർത്ഥ്യം കുറച്ച് കൃത്യതയില്ലാത്ത എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഉൽപാദനച്ചെലവ് ഗണ്യമായി കുറയുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ ലിമിറ്റ് ഫിറ്റ് ആൻഡ് ടോളറൻസ് Limits Fits and Tolerances ചർച്ചാ വിഷയത്തിലേക്ക് കടക്കാം ആമുഖം നമ്പർ രണ്ട് ഉൽപാദന പ്രക്രിയകൾക്ക് സമാനമായ അളവുകൾ ഉപയോഗിച്ച് രണ്ട് ഭാഗങ്ങൾ ഉൽപാദിപ്പിക്കാൻ കഴിയും ഏതെങ്കിലും പ്രക്രിയ അല്ലെങ്കിൽ സംഭവിക്കുന്ന ഏതൊരു സംഭവവും ബൈനോമിയൽ ഡിസ്ട്രിബ്യുഷൻ പിന്തുടരും ശരിയാണ് അതിനാൽ അങ്ങനെയാണെങ്കിൽ നിർമ്മിക്കുന്ന രണ്ട് ഭാഗങ്ങളും കഴിയുന്നത്ര കൃത്യത വരുത്തണമെങ്കിൽ അവ അസാധ്യമാണ് അതിനാൽ ഈ ലോകത്ത് രണ്ട് ഉൽപ്പന്നങ്ങളെ വളരെ സമാനമാക്കുന്ന ഒരു നിർമ്മാണ പ്രക്രിയയും ഇല്ല ഒരു ചെറിയ വ്യതിയാനം ഉണ്ടാകും ശരി ഇത് അംഗീകരിക്കേണ്ടതുണ്ട് ഈ സ്വാഭാവിക വ്യതിയാനങ്ങൾ ക്രമരഹിതമായ സ്വഭാവമുള്ളതും അനിവാര്യമായും അനിയന്ത്രിതമായ പല ചെറിയ കാരണങ്ങളുടെയും ആകെ ഫലമാണ് ഉദാഹരണത്തിന് ഒരു ഷാഫ്റ്റ് നിർമ്മിക്കുന്നതിനായി നൽകിയിരിക്കുന്ന വർക്ക് പീസ് കഴിയുന്നത്ര കൃത്യമായിരിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം നിങ്ങൾക്ക് അളവുകൾ പരിശോധിക്കാൻ കഴിയും എന്നാൽ ഓരോ നിമിഷവും ശരിയാണെന്ന് തോന്നിയാൽ അതിനുശേഷം പോലും നിങ്ങൾ മൈക്രോസ്കോപ്പിക്കൽ ഘടനയിലേക്ക് പോകുന്നത് നിങ്ങൾ കാണും ഗ്രേയിനിന്റെ വലുപ്പത്തിനുള്ളിൽ ഒരു ചെറിയ അളവിലുള്ള ക്രമരഹിതതയുണ്ട് ഇവ അനിയന്ത്രിതമായ പാരാമീറ്ററുകളാണ് അതിനാൽ ഒരു ചെറിയ അനിയന്ത്രിതമായ പാരാമീറ്റർ ഉപയോഗിച്ച് എല്ലാം ചേർന്ന് ഒരു ചെറിയ വ്യതിയാനം വരുത്തുന്നതിനായി രൂപം കൊള്ളുന്നു ഈ വ്യതിയാനം ഉൽപാദന പ്രക്രിയയെ സമാനമാക്കുന്നതിന് വളരെ പ്രയാസകരമാക്കുന്നു സാധാരണയായി ക്രമീകരിക്കാത്ത മെഷീനുകൾ ഓപ്പറേറ്റർ പിശക് ഉപകരണ വിയർ അല്ലെങ്കിൽ വികലമായ അസംസ്കൃത വസ്തുക്കൾ എന്നിവയിൽ നിന്നാണ് വേരിയബിളിറ്റി ഉണ്ടാകുന്നത് നിങ്ങൾ മൈക്രോസ്കോപ്പിക്കൽ ഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ മാക്രോസ്കോപ്പിക്കൽ ഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൽ വരുന്ന വ്യതിയാനങ്ങൾ ഉണ്ട് ഈ സമാന അളവുകൾ പറയാൻ ശ്രമിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ശരി അതിനാൽ ഏതൊരു നിർമ്മാണ പ്രക്രിയയിലും അത് എത്ര നന്നായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര ശ്രദ്ധാപൂർവ്വം പരിപാലിക്കപ്പെടുന്നു എന്നത് പരിഗണിക്കാതെ തന്നെ ഒരു നിശ്ചിത അളവിലുള്ള സ്വാഭാവിക വേരിയബിളിറ്റി നിലനിൽക്കും ശരി ഇപ്പോൾ സ്വാഭാവിക നിലവിലുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവിടെ ഒരു സ്വാഭാവിക വേരിയബിളിറ്റി ഉണ്ടാകും ഇപ്പോൾ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും ഒന്ന് ധാരാളം സമയവും പണവും ചെലവഴിക്കുമെന്നും ഒരു വ്യത്യാസവുമില്ലെന്ന് ഉറപ്പുവരുത്താനും അത് ചെയ്യുന്നതിനുള്ള ഒരു മാർഗ്ഗമാണ് മറ്റൊരു വഴി അത് ചെയ്യുന്നത് ഞാൻ നിയമവിധേയമാക്കുന്നു ഞാൻ ഇത് നിയമവിധേയമാക്കുന്നു ഒരു ചെറിയ വ്യതിയാനം അനുവദിക്കാൻ ഞാൻ നിങ്ങളെ ശ്രമിക്കും പക്ഷേ ആ ചെറിയ വ്യതിയാനത്തിനകത്ത് നിങ്ങൾ എല്ലാം ഉൽപാദിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുക അതിനാൽ അത് അവിടെയുള്ള സ്വാഭാവിക വേരിയബിളാണ് അത് ടോളറൻസ് അല്ലാതെ ഒന്നുമല്ലെന്ന് നിങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ശരി നൽകിയിരിക്കുന്ന അളവുകൾ കൃത്യമായി നൽകുന്ന ഒരു ഘടകവും നിർമ്മിക്കാൻ കഴിയില്ല ഇത് രണ്ട് പരിധിക്കുള്ളിൽ മാത്രമേ മുകളിലേക്കും താഴെയുമായി പരിമിതപ്പെടുത്താനാകൂ ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് 20 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു വ്യാസം ഉൽപാദിപ്പിക്കേണ്ടതുണ്ടോ എന്ന് പറയാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിയമവിധേയമാക്കാൻ ശ്രമിക്കുകയും വ്യാസം 20 0 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 1 മില്ലിമീറ്റർ എന്റെ ഷാഫ്റ്റിനായി സ്വീകരിക്കുകയും അതിനനുസരിച്ച് ഞാൻ ഈ ഷാഫ്റ്റ് നിർമ്മിക്കുമ്പോൾ ഒരു ഹോളിലേക്ക് കടക്കുകയും ചെയ്യും കൂടാതെ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് ഒരു ഹോൾ 20 പോയിന്റ് ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കും ഇത് മുഴുവനും 20 0 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 0 അല്ലെങ്കിൽ 0 05 അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുമെന്ന് പറയാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത് 0 1 മില്ലിമീറ്ററാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കും അതിനാൽ ഇത് ഒരു ഹോൾ ആണെന്ന് നിങ്ങൾ കാണുന്നു ഈ ഷാഫ്റ്റിനായി ഞാൻ പറയാൻ ശ്രമിക്കുന്നു ചില വ്യതിയാനങ്ങൾ സംഭവിക്കാൻ ഞാൻ അനുവദിക്കുന്നു ഈ ഹോൾനായി ഞാൻ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാൻ അനുവദിക്കുന്നു ഇപ്പോൾ രണ്ട് അങ്ങേയറ്റത്തെ അറ്റങ്ങളെ മുകളിലുള്ള പരിധികൾ താഴ്ന്ന പരിധി എന്ന് വിളിക്കുന്നു ഒരു ഷാഫ്റ്റിന് മുകളിലുള്ള പരിധി 20 1 ഉം താഴ്ന്ന പരിധി 19 9 ഉം ആണ് നിങ്ങളുടെ ഹോൾന് നിങ്ങളുടെ ഹോൾന്റെ ഉയർന്ന പരിധി എന്താണ് നിങ്ങളുടെ ഹോൾന്റെ താഴ്ന്ന പരിധി എന്താണ് താഴ്ന്ന ഉയർന്ന പരിധിയും താഴ്ന്ന പരിധികളും വ്യത്യസ്തമായിരിക്കും ഇവിടെയും നിങ്ങൾക്ക് 20 1 19 9 എന്നിവ ഉണ്ടാകും അതിനാൽ നിങ്ങളുടെ ഹോൾ 19 9 ആണെങ്കിൽ പരമാവധി മെറ്റീരിയൽ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് പരമാവധി തുക ഉണ്ടായിരുന്നു ഇത് 20 1 ആണ് ഇത് മുകളിലത്തെ ഭാഗത്താണ് ഇത് താഴത്തെ ഭാഗത്താണ് നിങ്ങൾ ഒരു ഹോൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് മുകൾ ഭാഗത്തും മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഇത് താഴത്തെ ഭാഗത്തും ആയിരിക്കും ഡിസൈനർ ചെയ്യേണ്ടത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണും ആകൃതി നിർവചിക്കാൻ ഉപയോഗിക്കുന്ന അളവുകൾക്ക് സ്വീകാര്യമായ അത്തരം ടോളറൻസ് പരിധി ഡിസൈനർ നിർദ്ദേശിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് തൃപ്തികരമായ പ്രവർത്തനവും സേവനവും ഉറപ്പാക്കുന്നത് അനുവദനീയമായ ടോളറൻസ് പ്രക്രിയ വ്യതിയാനങ്ങളേക്കാൾ പര്യാപ്തമാകുമ്പോൾ പ്രയാസകരമായി ഉണ്ടാകില്ല പ്രോസസ്സ് വ്യതിയാനത്തേക്കാൾ ഉയർന്നതാണെങ്കിൽ ഞാൻ ഈ ടോളറൻസ് നൽകുന്നതെന്തും എന്നാണ് ഇതിനർത്ഥം അതിനാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഏതെങ്കിലും മാച്ചിംഗ് പ്രക്രിയ എടുക്കുമ്പോൾ ആ രീതിയിൽ വാദിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം മെക്കാനിക്കൽ ചലിക്കുന്ന ഭാഗങ്ങളുണ്ട് ഒരു നിശ്ചിത കാലയളവിൽ ഈ മെക്കാനിക്കൽ ചലിക്കുന്ന ഭാഗങ്ങൾക്ക് വിയർ ആൻഡ് ടിയർ ഉണ്ട് ഈ വിയർ ആൻഡ് ടിയർ കാരണം എല്ലായ്പ്പോഴും മൂല്യങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളോ വ്യതിയാനങ്ങളോ ഉണ്ട് അതിനാൽ നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകേണ്ട ഒരു ഉയർന്ന പരിധിയും നിങ്ങൾ നൽകേണ്ട കുറഞ്ഞ പരിധിയും എല്ലായ്പ്പോഴും ഉണ്ട് ഉയർന്നതും താഴ്ന്നതുമായ പരിധികൾ തമ്മിലുള്ള വ്യത്യാസത്തെ അനുവദനീയമായ ടോളറൻസ് എന്ന് വിളിക്കുന്നു ഞാൻ വ്യതിയാനങ്ങൾ സഹിക്കുന്നു അതിനാലാണ് ഇതിനെ ടോളറൻസ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ഷാഫ്റ്റ് നിർമ്മിക്കേണ്ടതുണ്ട് ഇതിനർത്ഥം മുകളിലെ പരിധി 40 02 നും 39 98 ന്റെ താഴ്ന്ന പരിധിക്കും ഇടയിലുള്ള വ്യാസം ഉണ്ടെങ്കിൽ ഷാഫ്റ്റ് സ്വീകരിക്കും അനുവദനീയമായ പരമാവധി ടോളറൻസ് എന്താണ് അനുവദനീയമായ പരമാവധി ടോളറൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നിങ്ങൾക്ക് ഈ യൂണിറ്റ് നൽകുന്നത് മില്ലിമീറ്ററായിരിക്കും ശരി അതിനാൽ ടോളറൻസ്ക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ഹോളിനും നിങ്ങൾക്കുള്ള അതേ മാർഗ്ഗം ഇതാണ് ഇവിടെ ഒരു ഹോൾ ഷാഫ്റ്റിനെക്കുറിച്ചും 2Dയിൽ ഉള്ളതിനെക്കുറിച്ചും സംസാരിക്കുന്നു നിങ്ങൾക്ക് ഈ ജ്യാമിതി 3D രൂപത്തിൽ വിപുലീകരിക്കാനും കഴിയും ഇന്ന് ഒരു ദിവസത്തിൽ ഒരു ഭാഗത്തിന് ത്രിമാന ടോളറൻസ് വ്യത്യാസത്തിലും ഇത് നൽകുന്നു ഇപ്പോൾ ഒരു അടിസ്ഥാന അല്ലെങ്കിൽ നാമമാത്ര വലുപ്പം നിർവചിച്ചിരിക്കുന്നത് അതിന്റെ അളവനുസരിച്ചുള്ള വ്യതിചലനമാണ് നമ്മൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നത് 40 40 അടിസ്ഥാന വലുപ്പത്തിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ നാമമാത്ര വലുപ്പമാണ് അതിനാൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 ശരി ഈ 0 02 പ്ലസും 0 02 ഉം ഇത് ഒന്നുമല്ല പക്ഷേ നൽകിയിരിക്കുന്ന ടോളറൻസ് ശരി മറ്റൊരു രസകരമായ ഭാഗം എന്തുകൊണ്ടാണ് ഈ ടോളറൻസ് നൽകുന്നത് ടോളറൻസ് പരിശോധിച്ച് ഈ ഭാഗം നിർമ്മിക്കാൻ ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തീരുമാനിക്കാം ഉദാഹരണത്തിന് ടോളറൻസ് വളരെ ഇറുകിയതാണെങ്കിൽ നമുക്ക് 40 02 ന്റെ ഒരു ഉദാഹരണം കാണാൻ ശ്രമിക്കാം ഞാൻ ഷാഫ്റ്റ് നിർമ്മിക്കണം ഞാൻ 40 002 ന് ഷാഫ്റ്റ് നിർമ്മിക്കണം 40 0002 ന് ഞാൻ ഷാഫ്റ്റ് നിർമ്മിക്കണം അതിനാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ടർനിങിലൂടെ ചെയ്യാം ഇത് തിരിക്കുന്നതിലൂടെ ചെയ്യാം അടുത്ത പ്രക്രിയ ഗ്രൈൻഡിംഗ് നിങ്ങൾ ഇതിനായി പോയാൽ അത് ടേണിംഗ് പ്ലസ് ഗ്രൈൻഡിംഗിനായി കാത്തിരിക്കും കൂടാതെ നിങ്ങൾ ചില സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സിനായി നോക്കും അതിനാൽ ഇത് എന്താണെന്ന് നമ്മൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ ഒരു സൂപ്പർ ഫിനിഷിംഗ് പ്രക്രിയയ്ക്കായി നോക്കും ടോളറൻസ് നോക്കിയാണ് നിങ്ങൾ ഇത് നോക്കുന്നത് ഇപ്പോൾ ഞാൻ ചെയ്തത് ഈ ഭാഗം നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയകൾ ചേർത്തു എന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ന് തിരികെ പോയാൽ കൃത്യത വർദ്ധിക്കുകയും ചെലവ് കൂടുകയും ചെയ്യുന്നത് നമ്മൾ ചർച്ചചെയ്തു എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് കാരണം കൃത്യമായ ഒരു ഭാഗം നിർമ്മിക്കുന്നതിന് ധാരാളം പ്രക്രിയകൾ ഏർപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നു അതിനാൽ ഈ ടോളറൻസ് ശേഷം ഈ ടോളറൻസ് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഈ ടോളറൻസ് ഇന്റർചേഞ്ച്ബിലിറ്റി എന്ന പുതിയ ആശയത്തിലേക്ക് നയിക്കുന്നു ഇതിനെ 2 പദങ്ങളായി വിഭജിക്കാം മാറ്റാൻ കഴിയും ശരി ഈ ആശയം ആധുനിക ഉൽപാദന സാങ്കേതികതയിലൂടെ നിർമ്മാണത്തിന് ഒരു വലിയ ഇടവേള നൽകി ഒരു സമ്പൂർണ്ണ ഉൽപ്പന്നത്തെ വിവിധ ഘടകഭാഗങ്ങളായി വിഭജിക്കേണ്ടതുണ്ട് ഓരോ ഭാഗത്തിന്റെയും ഉത്പാദനം സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കുന്ന ഒരു സ്വതന്ത്ര പ്രക്രിയയായി മാറുന്നു മറ്റൊരു കാര്യം കാണുക നിങ്ങൾ മനസിലാക്കേണ്ട ഉൽപ്പന്നം ഭാഗങ്ങളുടെ എണ്ണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭാഗങ്ങളുടെ എണ്ണം വീണ്ടും വാങ്ങിയ ഭാഗങ്ങളായും നിർമ്മിക്കുന്ന ഭാഗങ്ങളായും തിരിക്കാം ഇപ്പോൾ ഇനങ്ങൾ വാങ്ങി എന്നതിനർത്ഥം ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ ഉപയോഗിക്കാവുന്ന മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ അത് വാങ്ങുന്നു എന്നാണ് ചില കാര്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നു നിങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ഉദാഹരണത്തിന് ഒരു സ്പെസിഫിക്കേഷൻ നൽകാൻ നിങ്ങൾ ശ്രമിക്കുന്നു സ്പ്രിംഗ് നട്ട് ബോൾട്ട് സ്ക്രൂ എന്നിവയാണ് പൊതുവായ ഇനങ്ങൾ ഇവിടെ പറയുന്നത് എം 6 നട്ട് എം 6 ബോൾട്ട് നിങ്ങൾ വിപണിയിൽ പറയുന്നതെല്ലാം എനിക്ക് എം 6 നൽകുക അല്ലെങ്കിൽ ഉൽപ്പന്നത്തിനായി വാങ്ങിയ ഇനം പോലും ഒരു കംപ്ലീറ്റ് മോട്ടോർ ആകാം ശരി സ്പ്രിംഗ് ഓപ്പൺ കോയിൽഡ് അല്ലെങ്കിൽ ക്ലോസ്ഡ് കോയിൽഡ് സ്പ്രിംഗിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് നിങ്ങൾ കാഠിന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു അത് നിങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുന്നു നിങ്ങൾ വ്യാസത്തെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്നു ശരിയാണ് ഇതെല്ലാം നിങ്ങൾ നൽകുന്ന ചില സവിശേഷതകളാണ് വിപണിയിൽ ലഭ്യമാണ് എന്തുകൊണ്ടാണ് ഈ വാങ്ങിയ ഇനങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് കാണുക ഈ വാങ്ങിയ ഇനങ്ങൾ ഇന്റർചേഞ്ച്ബിലിറ്റി ആശയം പിന്തുടരും കാരണം ഈ നട്ടും ബോൾട്ടും വിവിധ ഉൽപ്പന്നങ്ങൾ ഉറപ്പിക്കാൻ ഉപയോഗിക്കാം ഞാൻ നിർമ്മിക്കുന്നത് ബൾക്കായിട്ടാണ് അതിനാൽ എനിക്ക് സങ്കൽപ്പത്തിലേക്ക് കടക്കാനും ഭാഗങ്ങൾ കുറഞ്ഞ സാമ്പത്തികമായും നൽകാം അതിനാൽ വില കുറയ്ക്കുന്നതിന് ഈ ഇന്റർചേഞ്ച്ബിലിറ്റി വലിയ തോതിൽ ഉയർന്നുവന്നിട്ടുണ്ട് ഭാഗങ്ങൾ ആവശ്യമുള്ള കൃത്യതയ്ക്ക് കൂട്ടമായി നിർമ്മിക്കുകയും അതേ സമയം വ്യക്തമാക്കിയ കൃത്യതയുടെ പരിധി പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്തരം സാഹചര്യങ്ങളിൽ ഒരു ഘടകത്തിന്റെ നിർമ്മാണത്തെ ഇന്റർചേഞ്ചബിലിറ്റി ഇന്റർചേഞ്ചബിൾ മാനുഫാക്ചറിംഗ് എന്ന് വിളിക്കുന്നു ശരി ഇത് ഒരു വലിയ വിപ്ലവം നൽകി ഉൽപ്പാദനത്തിന്റെ ഇന്റർചേഞ്ചബിലിറ്റി സാധ്യമാകുമ്പോൾ ക്രമരഹിതമായി തിരഞ്ഞെടുത്ത ഏതെങ്കിലും ഒരു ഘടകം മറ്റേതെങ്കിലും അനിയന്ത്രിതമായി തിരഞ്ഞെടുത്ത ഇണചേരൽ ഘടകങ്ങളുമായി കൂട്ടിച്ചേർക്കണം അതിനാൽ എനിക്ക് ഒരു നട്ട് ഉണ്ട് ഒരു നട്ട് ബോക്സ് അവിടെ ഞാൻ ഒരു നട്ട് എടുക്കുന്നു ഞാൻ ഒരു പെട്ടി എടുക്കുന്നു ഒരു കൌണ്ടർ ഉദാഹരണത്തിന് M 6 നട്ട് ഞാൻ എടുക്കുന്നു കൂടാതെ എനിക്ക് 1000 സെ ബോൾട്ടിന്റെ ഒരു വലിയ ബോക്സ് ഉണ്ട് ഞാൻ ഒരു M 6 ബോൾട്ട് തിരഞ്ഞെടുക്കുന്നു ഞാൻ ശ്രമിക്കണം കൂട്ടിച്ചേർക്കാൻ അത് കൂട്ടിച്ചേർക്കണം അതിനാൽ അതാണ് നിർമ്മാണത്തിലെ ഇന്റർചേഞ്ചബിലിറ്റി അത് സംഭവിക്കുകയും നിങ്ങൾ ഇതിനകം നട്ട് പഠിക്കുകയും ചെയ്താൽ അളവുകളിൽ ചെറിയ വ്യത്യാസമുണ്ടാകും ബോൾട്ടിന് അളവുകളിൽ ഒരു ചെറിയ വ്യതിയാനം ഉണ്ടാകും ഈ 2 അത്തരം രീതിയിൽ നിർമ്മിക്കപ്പെടുന്നു അവ ചെറുതായി നേടാൻ കഴിയും ക്രമീകരണം നടത്താനും കൂട്ടിച്ചേർക്കാനും കഴിയും ഇന്റർചേഞ്ചബിൾ അസംബ്ലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യത്യസ്ത ഓപ്പറേറ്റർമാർ നിർമ്മിക്കുന്ന സമാന ഘടകങ്ങൾ അസംബ്ലി ഘട്ടത്തിൽ കൂടുതൽ പരിഷ്ക്കരണങ്ങളില്ലാതെ കൂട്ടിച്ചേർക്കാനും പകരം വയ്ക്കാനും കഴിയും ഘടകങ്ങൾ പരസ്പരം മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അവ വൻതോതിൽ ഉൽപാദിപ്പിക്കുമ്പോൾ വൻതോതിലുള്ള ഉൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നില്ല അതിനാൽ ഇത് വൻതോതിലുള്ള ഉൽപാദനത്തിനുള്ളതാണെന്ന് മനസിലാക്കുക 1857 ൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവത്തിനുശേഷം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യന്ത്രങ്ങൾ ഇന്റർചേഞ്ചബിൾ ആശയം പിന്തുടർന്നു ഇന്റർചേഞ്ചബിലിറ്റി നേടുന്നതിന് നിരവധി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇന്റർചേഞ്ചബിലിറ്റിക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസിലാക്കണം ഇന്ത്യയ്ക്കുള്ളിലെ ഇന്റർചേഞ്ചബിലിറ്റി ഇത് അംഗീകരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നു കാരണം ഇത് ഒരു ഇന്ത്യൻ വിതരണക്കാരൻ മാത്രമായിരിക്കാൻ എത്രത്തോളം കഴിയും നിങ്ങൾ ആഗോള വിപണിയിൽ പ്രവേശിക്കണം ആഗോള വിപണിയിൽ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ഉൽപാദിപ്പിക്കുന്നതെന്തും പൊരുത്തപ്പെടണം അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആവശ്യമാണ് ഇന്റർചേഞ്ചബിലിറ്റി ആശയം അടിസ്ഥാനമാക്കി ഈ നിശ്ചിത മാനദണ്ഡം പാലിക്കേണ്ടതുണ്ട് അത് യൂണിവേഴ്സൽ ഇന്റർചേഞ്ചബിലിറ്റി ലോക്കൽ ഇന്റർചേഞ്ചബിലിറ്റി എന്നിങ്ങനെ തരംതിരിക്കാം ലോക്കൽ എന്നാൽ ഞാൻ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇന്ന് ഈ സാഹചര്യം പതുക്കെ മാറുകയാണ് നമ്മൾ ആഗോള വിപണിയിലേക്ക് നോക്കാൻ ശ്രമിക്കുകയാണ് അതിനാൽ ഒരു വെണ്ടർക്ക് ഓട്ടോമൊബൈൽ വ്യവസായത്തിലേക്ക് വിതരണം ചെയ്യാൻ കഴിയും അത് പൂനെയിൽ സ്ഥിതിചെയ്യുന്നു അത് ദില്ലിയിൽ സ്ഥിതിചെയ്യുന്നു അത് ചൈനയിലും സ്ഥിതിചെയ്യുന്നു ജപ്പാനിലും യുഎസിലും സ്ഥിതിചെയ്യുന്നു ഒരു വെണ്ടർ ഇന്ന് ഇന്ത്യയിൽ എല്ലാവർക്കുമായി വിതരണം ചെയ്യുന്ന കമ്പനികളുണ്ട് പ്രത്യേകിച്ചും വിവിധ സ്ഥലങ്ങളിൽ നിർമ്മിക്കേണ്ട ഭാഗങ്ങൾ ക്രമരഹിതമായി പ്രവർത്തനക്ഷമമായി തിരഞ്ഞെടുക്കുമ്പോൾ അവർ ചെയ്യുന്ന ഫാസ്റ്റണിംഗ് വ്യവസായത്തിലാണ് അവർ ഇതിനെ യൂണിവേഴ്സൽ ഇന്റർചേഞ്ചബിലിറ്റിറ്റം എന്ന് വിളിക്കുന്നത് എപ്പോൾ ഭാഗങ്ങൾ ഒരേ നിർമ്മാണ യൂണിറ്റിലാണ് നിർമ്മിക്കുന്നത് ലോക്കൽ ഇന്റർചേഞ്ചബിലിറ്റി എന്ന് വിളിക്കുന്ന അസംബ്ലിയിലേക്ക് ക്രമരഹിതമായി ആകർഷിക്കപ്പെടുന്നു അതിനാൽ ഇവിടെ ഞാൻ ചെയ്തത് എന്റെ വിശദീകരണത്തിൽ ഞാൻ ഇത് പരിവർത്തനം ചെയ്തു ഇത് നിങ്ങളുടെ സ്വന്തം വ്യവസായമായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഉദാഹരണത്തിന് മാരുതി ഒരു വ്യവസായമാണ് ഹ്യുണ്ടായ് ഒരു വ്യവസായമാണ് അവർക്ക് അവരുടെതായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം മാത്രമല്ല അവരുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് അവരുടെ ഉൽപ്പന്നത്തിനുള്ളിലെ അസംബ്ലി മാത്രം ഇത് മറ്റ് നിർമ്മാതാക്കൾക്ക് സാമാന്യവൽക്കരിക്കാനാവില്ല ശരിയാണ് ഉദാഹരണത്തിന് ഓട്ടോമൊബൈൽ വ്യവസായത്തിൽ ഉൽപാദിപ്പിക്കുന്നവ യന്ത്രോപകരണ നിർമ്മാതാവിന് ഉപയോഗിക്കുന്ന അതേ സ്ക്രൂ ഉപയോഗിക്കാൻ അവർക്ക് കഴിയില്ല ചർച്ചയ്ക്കുള്ള മറ്റ് രസകരമായ ആശയം സെലക്ടീവ് അസംബ്ലി സമീപനമായിരിക്കും സെലക്ടീവ് അസംബ്ലി സമീപനം എന്നാൽ മറ്റൊരു ഭാഗം കൂടി ചേരേണ്ട ഒരു ഭാഗം ഞാൻ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഞാൻ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ഭാഗം മെഷീൻ ചെയ്യാൻ ശ്രമിക്കുകയും ഒരൊറ്റ ഷാഫ്റ്റ് ഒരൊറ്റ ഹോളിലൂടെയോ അല്ലെങ്കിൽ ഒരു ഹൌസിങ്ങിലൂടെയോ ഉറപ്പുവരുത്തുക a എടുത്ത നട്ട് എന്നിട്ട് ഒരു ബോൾട്ട് എടുക്കുക ഇപ്പോൾ ഞാൻ ബോൾട്ട് ഗ്രൈൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ ഒരു നട്ട് ഗ്രൈൻഡ് ചെയ്യുകയോ ചെയ്യുന്നു ഈ നട്ടും ഈ ബോൾട്ടും കൃത്യമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഞാൻ ഉറപ്പാക്കുന്നു കൂടാതെ മറ്റേതെങ്കിലും നട്ടും മറ്റേതെങ്കിലും ബോൾട്ടും ക്രമരഹിതമായി എടുത്ത് ചെയ്യാൻ ആരംഭിക്കുക അസംബ്ലി പൊരുത്തപ്പെടുന്നില്ല ഇതിനെ സെലക്ടീവ് അസംബ്ലി എന്ന് വിളിക്കുന്നു ഇത് വിവിധ കൃത്യമായ ഘടകങ്ങൾക്കായി സമഗ്രമായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഡീസൽ ഇഞ്ചക്ഷൻ പമ്പുകളിൽ നിങ്ങൾക്ക് പ്ലങ്കറും ബാരലും ഉണ്ട് സിലിണ്ടർ എഞ്ചിൻ സിലിണ്ടറിന് നൽകേണ്ട ഇൻലെറ്റ് നിങ്ങൾക്ക് അവിടെ ഒരു പമ്പ് ഉണ്ട് ഈ പമ്പിൽ ഒരു ക്യാം ഉണ്ട് ഈ കാം സിലിണ്ടറിലേക്ക് ആവശ്യമായ ഡീസൽ നൽകുന്നു ഇവിടെ അവർ ചെയ്യുന്നത് ഡീസൽ ഒരു ബാരലിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഒരു പ്ലങ്കർ ഉണ്ട് ഈ പ്ലങ്കറും ബാരൽ അസംബ്ലിയും വളരെ മികച്ചതായിരിക്കണം അത് ഡീസൽ താഴേക്ക് ചോർന്നൊലിക്കരുത് അവർ അതിനെ സെലക്ടീവ് അസംബ്ലിയായി മാറ്റാൻ ശ്രമിക്കുന്നു പല ഹൈഡ്രോളിക് വാൽവുകളും സിലിണ്ടറും പിസ്റ്റണും വാൽവും എന്തായാലും അവ ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്താൻ സെലക്ടീവ് അസംബ്ലി ചെയ്യാൻ ശ്രമിക്കുന്നു സെലക്ടീവ് അസംബ്ലി എന്നത് വിലയേറിയ ഒരു സമീപനമാണ് കാരണം നിങ്ങൾ ഒരു ഷാഫ്റ്റ് എടുക്കുകയും അതിന്റെ ഒരു കൌണ്ടർ എടുക്കുകയും ചെയ്താൽ കൃത്യമായി പൊരുത്തപ്പെടുന്ന ഒരു കൌണ്ടർ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ 1 അസംബ്ലി നിർമ്മിക്കുന്നതിനായി 3 4 ആയിരിക്കാം പരിശോധിച്ച് തരംതിരിച്ച് നിർമ്മിക്കുന്നത് അതിനാൽ ഇത് സമയം വർദ്ധിപ്പിക്കും മാത്രമല്ല ഇത് കൂട്ടിച്ചേർക്കുന്നതിനായി നിങ്ങൾ കൂടുതൽ ഉൽപാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഉൽപാദനത്തിനും ഇത് ശ്രമിക്കും മൊത്തത്തിലുള്ള വ്യതിയാനം കുറയ്ക്കുന്നതിനുള്ള ചെലവ് കുറഞ്ഞതുമായ സമീപനമാണ് സെലക്ടീവ് അസംബ്ലി അങ്ങനെ അസംബ്ലി ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു ഈ പ്രക്രിയയിൽ കൂടിചേരൽ ജോഡിയുടെ ഘടകങ്ങൾ അളക്കുകയും അവ നിർമ്മിക്കുന്നതിനനുസരിച്ച് നിരവധി ക്ലാസുകളായി തിരിക്കുകയും ചെയ്യുന്നു ശരി സെലക്ടീവ് അസംബ്ലിക്കായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് ഒരു ഷാഫ്റ്റും ഒരു ഹോളിന്റെ പകുതിയും ഒരു ഹോളുമാണ് ഈ സാമ്പത്തിക ലാഭമുണ്ടാക്കുന്നതിന് നിങ്ങൾ ആദ്യം ഒരു ഷാഫ്റ്റ് തിരഞ്ഞെടുക്കുക നിങ്ങൾ ആദ്യം ഒരു കൌ ണ്ടർപാർട്ട് തിരഞ്ഞെടുത്ത് അസംബ്ലി നടത്തുക മറ്റൊരാളെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഈ രണ്ട് കൂട്ടരും കൂടിചേരുന്നുണ്ടോ എന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ അവരെ കൂട്ടിച്ചേർക്കുകയും പ്രത്യേകമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് മൊത്തത്തിലുള്ള വ്യതിയാനം കുറയ്ക്കുന്നതിനും അങ്ങനെ കൂട്ടിച്ചേർത്ത ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ചെലവ് കുറഞ്ഞ സമീപനമായി ഇതിനെ പറയുന്നത് ഈ പ്രക്രിയയിൽ കൂട്ടിച്ചേർത്ത ജോഡികളുടെ ഘടകങ്ങൾ അളക്കുകയും പരസ്പരം മാറ്റാവുന്ന രീതിയിൽ നിരവധി ബിൻസുകളായി വർഗ്ഗീകരിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ക്രമരഹിതമായി ഇവിടെ തിരഞ്ഞെടുത്ത് നിരവധി ഉൽപ്പന്നങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 02 മില്ലിമീറ്റർ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 02 39 98 എന്നിവയിൽ ഉത്പാദിപ്പിക്കാൻ കഴിയും നിങ്ങളുടെ അങ്ങേയറ്റത്തെ അറ്റങ്ങൾ നിങ്ങൾക്ക് ഭാഗങ്ങൾ മാത്രമേ ലഭിക്കൂ എന്ന ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്കിടയിലും ഇതിൽ പങ്കാളികളാകുന്നു ഈ ഷാഫ്റ്റിനായി ഞാൻ ഹോളുകൾ ഉണ്ടാക്കുന്നു ഞാനും ഇത് തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ ഞാൻ അസംബ്ലി ചെയ്യുന്നു ശരി ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ കഴിയുന്നത്ര അടുത്ത് നിറവേറ്റുന്നതിന് ഉചിതമായ ജോഡിയിൽ നിന്ന് ഓരോ ജോഡിയുടെയും ഘടകം തിരഞ്ഞെടുത്ത് അന്തിമ ഉൽപ്പന്നം കൂട്ടിച്ചേർക്കുന്നു നിങ്ങൾ ഒരു ഗ്രൈൻഡിങ് നടത്തുകയും അത് പൂർത്തിയാക്കുകയും ചെയ്യണം ഈ സമീപനം പലപ്പോഴും നിർദിഷ്ട സവിശേഷത ഉപയോഗിച്ച് ടോളറൻസ് ഡിസൈനിനേക്കാൾ ചെലവ് കുറവാണ് ഇവിടെ പരസ്പരം കൈമാറ്റം ചെയ്യാവുന്ന ഒന്ന് സെലക്ടീവ് അസംബ്ലി രണ്ട് സെലക്ടീവ് അസംബ്ലി വീണ്ടും ഇവിടെ നമ്മൾ ചെയ്യുന്നത് നിരവധി ബിന്നുകളാക്കി മാറ്റാൻ ശ്രമിക്കുന്നു അവയ്ക്കിടയിൽ എടുക്കുന്ന തരത്തിൽ നമ്മൾ ബിന്നിൽ നിന്ന് എടുക്കുന്നു ഉദാഹരണത്തിന് ഇത് 40 02 ആകാം ഇത് 40 01 ആകാം ഇത് 4 00 39 അതിനാൽ എനിക്ക് ഇവിടെ എല്ലാ ഷാഫ്റ്റുകളും ഉണ്ട് എന്തായാലും എനിക്ക് ഇവിടെ ബോൾട്ടുകൾ ഉണ്ട് കൌണ്ടർ എനിക്കും വേഗത്തിൽ ലഭിക്കും എനിക്ക് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത് ഇവിടെ ഒത്തുചേരാം എന്നാൽ ഇവിടെ എന്താണ് വലിയ വെല്ലുവിളി എന്തുകൊണ്ടാണ് ഞാൻ വിലകൂടിയതെന്ന് പറഞ്ഞത് നിങ്ങൾ ആദ്യം പരിശോധിച്ച് തരംതിരിക്കേണ്ടതുണ്ട് വളരെ കർശനമായ ടോളറൻസ് പുലർത്താൻ ആഗ്രഹിക്കുന്നു തുടർന്ന് ഇവിടെ കുറച്ച് ഗ്രൈൻഡിങ് ചെയ്യുക തുടർന്ന് പൂർത്തിയാക്കുക ശരി അതിനാൽ ഇത് സെലക്ടീവ് അസംബ്ലിയാണ് എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ടോളറൻസ് വേണമെങ്കിൽ അതേ സെലക്ടീവ് അസംബ്ലി വളരെ ചെലവേറിയ ടോളറൻസാണ് ചർച്ചയുടെ അടുത്ത വിഷയം ടോളറൻസ് ആണ് പരസ്പര കൈമാറ്റം സുഗമമാക്കുന്നതിന് ഡിസൈനർ നിർദ്ദേശിച്ചതുപോലെ അനുവദനീയമായ ടോളറൻസ് പരിധിക്ക് അനുസരിച്ചാണ് ഘടകങ്ങൾ നിർമ്മിക്കുന്നത് ടോളറൻസ് അളവുകളിലെ വ്യതിയാനത്തിന്റെ അനുവദനീയമായ പരിധി ഡിസൈനർ ഒരു യുക്തിസഹമായി വ്യക്തമാക്കേണ്ടതുണ്ട് അതിനാൽ അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എലമെന്റ് ഉണ്ടാകും ശരിയാണ് ഈ ഫംഗ്ഷൻ എലമെൻറ് എങ്ങനെയാണ് വന്നത് ഉപഭോക്താക്കളുടെ അഭിപ്രായം ഉപഭോക്തൃ അഭിപ്രായം അല്ലെങ്കിൽ ചോയ്സ് എന്നിവയിൽ നിന്നാണ് വന്നത് ചില ഉൽപ്പന്നങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തു ഫംഗ്ഷണൽ ഘടകങ്ങൾ ഉണ്ട് ഫംഗ്ഷണൽ ഘടകങ്ങൾ ഡിസൈനറിന് ഒരു ഡ്രോയിംഗ് ഉണ്ടായിരിക്കണം തുടർന്ന് നിർമ്മാതാവിന് അത് നൽകുന്നു ഡിസൈനർക്ക് ഓരോ ഫംഗ്ഷനെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം ഈ ഫംഗ്ഷൻ അറിയുന്നതിലൂടെ യുക്തിപരമായി ചിന്തിക്കുകയും നിർമ്മാണ ഡ്രോയിംഗ് നൽകുകയും വേണം അത് ഉൽപ്പാദിപ്പിക്കാവുന്നതും കുറഞ്ഞ സാമ്പത്തികവുമാണ് അപ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗും മാനുഫാക്ചറിംഗ് ഡ്രോയിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ടോളറൻസ് മാത്രമാണ് അളവിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ശരി ഒരു പ്രത്യേക മൂല്യത്തിനായുള്ള അനുവദനീയമായ വ്യതിയാനത്തിന്റെ വ്യാപ്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും അളന്ന മൂല്യം അല്ലെങ്കിൽ നിയന്ത്രണ മാനദണ്ഡമായി ടോളറൻസ് നിർവചിച്ചിരിക്കുന്നു ശരി ഇത് അനുവദനീയമായ വ്യതിയാനത്തിന്റെ വ്യാപ്തിയാണ് ശരി മൊത്തം വ്യതിയാനമായും ഇതിനെ നിർവചിക്കാം അതിനാൽ ഒരു അളവിന്റെ വലുപ്പത്തിൽ അനുവദനീയമാണ് ഇതിനകം കണ്ട മുകളിലും താഴെയുമുള്ള സ്വീകാര്യമായ അളവുകൾ തമ്മിലുള്ള ബീജഗണിത വ്യത്യാസമാണ് ഇത് അതിനാൽ അത് ഒന്നുമല്ല പക്ഷേ ടോളറൻസ് വ്യതിയാനത്തെ സഹിക്കുന്നു അതിനാൽ ഉൽപ്പാദനച്ചെലവും വേഴ്സസ് ടോളറൻസും ഈ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് വിശദീകരിച്ച അനുവദനീയമായ ടോളറൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അനുവദനീയമായ ടോളറൻസ് കുറയുമ്പോൾ ഞാൻ പറഞ്ഞ കൃത്യത കുറയുന്നു ടോളറൻസ് കുറയുന്നു അതിനർത്ഥം ടോളറൻസ് കുറയുന്നുവെന്ന് പറയാൻ കൃത്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ കടുപ്പമേറിയതായിത്തീരുന്നു അത് കൈവരിക്കാൻ ഉൽപാദനച്ചെലവ് ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇത് ടോളറൻസ് പോലെയാണ് ഇത് ചെലവ് ടോളറൻസ് ചെറുതും ചെറുതുമായി പോകുമ്പോൾ ടോളറൻസ് ചെറുതും ചെറുതുമായിത്തീരുമ്പോൾ ചെലവ് കൂടുതലായിരിക്കും ടോളറൻസ് ചെലവ് കൂടുതലാണ് ഇത് മിനിമം ഇത് പരമാവധി ശരിയാണ് ചെലവ് കുറയുകയും കുറയുകയും ചെയ്യുമ്പോൾ ടോളറൻസ് ഇതുപോലെയായി ഉയരുന്നു ഇത് ഏറ്റവും കുറഞ്ഞത് ഇത് പരമാവധി ആണ് അതിനാൽ ടോളറൻസ് എന്താണ് ടോളറൻസ് ടോളറൻസ് എന്നത് വ്യതിയാനം ഡൈമൻഷണൽ വ്യതിയാനം ശരി അതിനാൽ അനുവദനീയമായ ടോളറൻസ് കുറയുന്നതിനനുസരിച്ച് പ്രവർത്തനപരമായ ആവശ്യകതയെ തരംതാഴ്ത്താതെ അനുവദനീയമായ ടോളറൻസ് പരിധിയിൽ ഇളവ് വരുമ്പോൾ ഉൽപാദനച്ചെലവ് കൂടുതലാകും ഉൽപ്പാദനച്ചെലവ് കുറയുന്നു ഇത് ഒരു എക്സ്പോണൻഷ്യൽ ഫാഷനാണ് ശരി ഇത് വളരെ പ്രധാനപ്പെട്ട ഗ്രാഫ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ എക്സ്പോണൻഷ്യലിനെ ലീനിയറിലേക്ക് പരിവർത്തനം ചെയ്യാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല നമ്മൾ ഷിഫ്റ്റു ചെയ്യാൻ ശ്രമിക്കുകയാണ് പകരം ഷിഫ്റ്റ് ചെയ്യാനും ചെലവ് പരമാവധി കുറയ്ക്കാനും ശ്രമിക്കുന്നു നമ്മൾ ഇത് മാറ്റാൻ ശ്രമിക്കുക ഇവിടെ ഈ പോയിന്റ് പോലെയുള്ള ഒന്ന് പാത ഉൽപാദിപ്പിക്കുന്നതിന് ഇത് വളരെ ലാഭകരമാണ് വളരെ അടുത്ത ടോളറൻസ് പരിധി നിലനിർത്തുന്നതിന് ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അത് തീർച്ചയായും ഉൽപാദനച്ചെലവ് വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ടോളറൻസ് വ്യതിയാനം കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗം നിർമ്മിക്കുന്ന യന്ത്രം പൂർണ്ണമായും നിയന്ത്രണത്തിലായിരിക്കണം അവിടെ ഏതാണ്ട് നിസാരമായ അനിയന്ത്രിതമായ വേരിയബിളും ജോലിയും ഉണ്ടായിരിക്കണം മൈക്രോസ്കോപ്പിക്കൽ വീക്ഷണകോണിൽ നിന്ന് വ്യതിയാനത്തിനുള്ളിൽ വരുന്ന കഷണം കാഠിന്യത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് എല്ലാം നിയന്ത്രണത്തിലായിരിക്കണം അപ്പോൾ പ്രക്രിയയും നിയന്ത്രണത്തിലുള്ള ഒരു മെഷീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് വളരെ അടുത്ത ടോളറൻസ് പരിധി ഭാഗങ്ങൾ നിർമ്മിക്കാൻ കഴിയൂ ഇതെല്ലാം അടുക്കുമ്പോൾ സംഭവിക്കേണ്ടതുണ്ട് പലയിടത്തും ഉൽപാദനച്ചെലവ് ഗണ്യമായി ഉയരുന്നു അടുത്തത് നമുക്ക് ടോളറൻസിന്റെ വർഗ്ഗീകരണം പരിശോധിക്കാൻ തുടങ്ങാം ടോളറൻസ് വിതരണം അടിസ്ഥാന വലുപ്പത്തിന്റെ ഒരു വശത്ത് മാത്രമുള്ളപ്പോൾ അതിനെ ഏകപക്ഷീയമായ ടോളറൻസ് എന്ന് വിളിക്കുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടോളറൻസ് പരിധി അടിസ്ഥാന വശത്തിന്റെ ഒരു വശത്ത് പൂർണ്ണമായും മുകളിലോ അല്ലെങ്കിൽ ചുവടെ ഡ്രില്ലിംഗ് പ്രക്രിയയിൽ ഏകപക്ഷീയമായ ടോളറൻസ് ഉപയോഗിക്കുന്നു നമുക്ക് അങ്ങനെ കാണാൻ അനുവദിക്കുന്നതെന്താണ് ഇത് 40 0 ആണ് ഞാൻ പറയുന്നത് പ്ലസ് അത്രയേയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പ്ലസ് മൈനസ് 0 0 എന്ന് പറയാൻ കഴിയും ഇവിടെ ഇത് ഏകപക്ഷീയമായ ടോളറൻസ് ആണ് ഇത് ഒരു വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഇത് 0 0 പ്ലസ് 0 0 മൈനസ് 0 2 പോലെയാകാം ടോളറൻസ് വിതരണം അടിസ്ഥാനത്തിന്റെ ഒരു വശത്ത് മാത്രമാണെങ്കിൽ ആദ്യ രണ്ട് വശങ്ങളിൽ അല്ലെങ്കിൽ ഒരു വശത്ത് ഇവിടെ പരമാവധി 40 02 അല്ലെങ്കിൽ 40 2 മിനിമം 40 ആണ് ഇവിടെ ഇത് പരമാവധി 40 0 39 8 ശരി ഇത് ഏകപക്ഷീയമായ ടോളറൻസ് എന്നറിയപ്പെടുന്നു ഹോളിന്റെ അളവുകൾ ഒരു ദിശയിൽ നിന്ന് വ്യതിചലിക്കാൻ സാധ്യതയുള്ള ഡ്രില്ലിംഗ് പ്രക്രിയയിൽ ഏകപക്ഷീയമായ ടോളറൻസ് സാധാരണയായി ഉപയോഗിക്കാറുണ്ട് അത് അണ്ടർസൈസ്നു പകരം ഹോൾ എല്ലായ്പ്പോഴും ഓവർസൈസ് ആണ് ദയവായി ഈ വസ്തുത അടിവരയിടുക ആവശ്യമായ അളവിലുള്ള ഒരു ഡ്രിൽ നിങ്ങൾ ഉപയോഗിക്കുന്നു 6 മില്ലിമീറ്റർ ആയിരിക്കാം നിങ്ങൾ അവിടെ ഒരു ഹോൾ തുരത്താൻ ശ്രമിക്കുകയാണ് കൃത്യമായി 6 മില്ലിമീറ്റർ ഇല്ലെങ്കിൽ കൃത്യമായി 6 മില്ലിമീറ്റർ അവിടെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും 5 95 നേടാൻ കഴിയില്ല 6 05 മാത്രം നേടുക കാരണം സ്പിൻഡിൽ ഒരു ഓവൽറ്റി റണ്ണൌട്ടോ ovaltyrunput ഉണ്ടാകാം ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വലിയ ഹോൾ വ്യതിചലിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു വളരെ അപൂർവമായ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് അണ്ടർസൈസ് ആയിരിക്കാം ചൂട് പിന്നീട് ചൂട് ഇല്ലാതാകുന്നു ഒരു ഹോൾ ചുരുങ്ങൽ പ്രതിഭാസങ്ങൾ നടക്കുന്നു തെർമോപ്ലാസ്റ്റിക് മെറ്റീരിയൽ തെർമോപ്ലാസ്റ്റിക് ഡ്രില്ലിംഗിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഇത് വളരെ പ്രബലമായ ഒരു പ്രതിഭാസമാണ് കാരണം ചൂട് അടിഞ്ഞു കൂടുന്നു അത് ചുരുങ്ങാൻ ശ്രമിക്കും നിങ്ങൾക്ക് എപ്പോൾ അടിവരയില്ലാത്തതും എന്നാൽ ലോഹങ്ങളിൽ അത് സാധ്യമല്ല ഇത് ഒരു ഏകപക്ഷീയമായ ടോളറൻസ് അടിസ്ഥാനമാണെന്ന് ദയവായി ഒരു കുറിപ്പ് ഉണ്ടാക്കുക അടുത്തത് ടോളറൻസിന്റെ വർഗ്ഗീകരണമാണ് ഇവിടെ ഏകപക്ഷീയമായ ടോളറൻസ് ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് ഏകപക്ഷീയമായ ടോളറൻസ് എല്ലായ്പ്പോഴും അഭികാമ്യമാണ് കാരണം GO പരിധി ഗേജിലേക്ക് പോകാൻ അടിസ്ഥാന വലുപ്പം ഉപയോഗിക്കുന്നു ശരി പരിമിതി ഗേജുകൾ എന്തൊക്കെയാണ് എന്ന് പിന്നീട് വിശദീകരിക്കും എന്നാൽ ഈ വാക്ക് വന്നതിനാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് ഒരു വൻതോതിലുള്ള ഉൽപാദനത്തിലാണ് സംഭവിക്കുന്നത് വൻതോതിൽ ഉൽപാദനം നടക്കുന്നത് എല്ലാ ഘടകങ്ങളും അസംബ്ലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സാധൂകരിക്കപ്പെടുകയോ പരിശോധിക്കുകയോ ചെയ്യും സാങ്കേതികമായി പറഞ്ഞാൽ സൂക്ഷ്മമായ പരിശോധനക്ക് ശേഷം മാത്രമേ അത് അസംബ്ലിയിലേക്ക് പ്രവേശിക്കുക ഒള്ളു നമ്മൾ പരിശോധന നടത്തുമ്പോൾ രണ്ട് വർഗ്ഗീകരണങ്ങളുണ്ട് ഒരു വർഗ്ഗീകരണം നിങ്ങൾ ഡാറ്റയുടെ വ്യതിയാനം അളക്കാനും ശ്രദ്ധിക്കാനും ശ്രമിക്കുന്നു അതിനർത്ഥം ഷാഫ്റ്റ് വ്യാസം 40 1 മില്ലിമീറ്ററാണെന്ന് പറയാൻ മറ്റൊരു വഴി എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഡാറ്റ അറിയേണ്ടത് കാരണം എങ്ങനെയെങ്കിലും ഈ ഘടകം അസംബ്ലിക്ക് പോകുന്നു അതിന്റെ മറ്റൊരു വഴി എനിക്ക് ഒരു ഇൻഡിക്കേറ്റർ മെഷർമെന്റ് ഇൻഡിക്കേറ്റർ മെഷർമെന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് നിർമ്മിച്ച ഈ ഘടകം ഒത്തുചേരുന്നതിന് മൂല്യമുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് മൂല്യങ്ങളെക്കുറിച്ച് ഞാൻ കുറഞ്ഞത് ചിന്തിക്കുന്നില്ലേ ഞാൻ പരിശോധിക്കേണ്ടതുണ്ട് പോകുകയാണെങ്കിൽ അത് പോകുന്നില്ലെങ്കിൽ പോകരുത് അതിനാൽ ഞാൻ ചെയ്യേണ്ട സൂചകം ഗേജുകൾ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കും ഗേജുകൾ ഷാഫ്റ്റിന്റെയോ ഹോളിന്റെയോ GO GO ഇല്ലെന്ന് കണ്ടെത്തുന്നതിന് മാത്രമാണ് അതിനാൽ ഗേജുകൾ അതിനാൽ ഗേജുകളിൽ ഞാൻ രണ്ട് തരംതിരിക്കലുകൾ എഴുതാം ഇത് GO അല്ലെങ്കിൽ ഇത് NO GO എന്ന് പറയാൻ ഞാൻ ശ്രമിക്കും അല്ലെങ്കിൽ അതിനെ NO GO എന്ന് വിളിക്കുന്നു NO GO എന്ന ഗേജ് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ അത് ഒരു ഹോളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്താൽ അതിനർത്ഥം ഈ നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ ഈ സവിശേഷത നിങ്ങൾ നിർമ്മിച്ചതൊന്നും അംഗീകരിക്കില്ല അത് പോയാൽ അതിനർത്ഥം അത് സ്വീകരിച്ചുവെന്ന് പറയാൻ കുറച്ച് കഴിഞ്ഞ് പിന്തുടരുന്ന തത്ത്വങ്ങൾ എന്താണെന്ന് ഞങ്ങൾ പറയും എന്നാൽ ഇവയാണ് പരിധി അളവുകൾ ലിമിറ്റ് ഗേജുകൾ ഗേജുകളാണ് അവ ഉൽപാദിപ്പിച്ച ഭാഗമോ ഫീഡുകളോ പാതയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു ശരി എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ രക്തത്തിലെ പഞ്ചസാര പരിശോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ രീതിയിൽ ഇടും 140 ൽ കൂടുതലുള്ള ഡാറ്റ ഭയപ്പെടുത്തുന്നതാണെന്ന് കരുതുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ആ പ്രഭാതത്തിൽ നിങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഭയാനകമായ അവസ്ഥയിലാണോ അല്ലയോ എന്നതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ സുരക്ഷിത മേഖലയിലാണോ എന്ന് അറിയാൻ കൂടുതൽ താൽപ്പര്യമുള്ളത് അതെ നിങ്ങൾ വാദിച്ചേക്കാം ഞാൻ ബോർഡറിൽ ആണെങ്കിൽ നല്ലത് നിങ്ങൾ ബോർഡറിലായിരിക്കുമ്പോൾ ദയവായി പരിശോധിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായി പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കും മാഗ്നിറ്റ്യൂഡ് മൂല്യം നോക്കുക അല്ലെങ്കിൽ അത് മറക്കുക ശരി അതിനാൽ അതാണ് എന്തുകൊണ്ടാണ് ഈ ഗേജ് നിലവിൽ വരുന്നത് കാരണം നിർമ്മാണ വ്യവസായത്തിൽ ആരും പരിശോധനയ്ക്കായി അധിക പണം നൽകില്ല ആരെങ്കിലും വന്ന് ഇവിടെ ഒരു പേന പരിശോധിച്ചിട്ടുണ്ടെന്നും ദയവായി 2 രൂപ കൂടുതൽ നൽകണമെന്നും നിങ്ങൾ പറയും ഞാൻ എല്ലാ ഭാഗത്തും പരിശോധന നടത്തേണ്ടതില്ലെന്ന് നിങ്ങൾ പറയും പക്ഷേ അത് അടയ്ക്കാൻ കഴിയില്ല ഇത് ഒരു മൂല്യവർദ്ധന ജോലിയാണ് എന്നാൽ ഇതിനായി ഒരു ഉപഭോക്താവിനും പണം നൽകാൻ താൽപ്പര്യമില്ല ഈ പരിശോധന ഉൽപാദന പ്രക്രിയയിൽ തന്നെ നിങ്ങൾ വ്യാഖ്യാനിക്കുകയോ അല്ലെങ്കിൽ ഒരു ഗേജ് സ്ഥാപിച്ച് പരിശോധിച്ച് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ ശ്രമിക്കുകയോ ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല ഭാഗം GO ഗേജ് പരിധി എന്താണ് GO ഗേജ് യഥാക്രമം താഴ്ന്നതും ഉയർന്നതുമായ പരിധികളുള്ള വ്യത്യസ്ത ഗ്രേഡുകളുടെ ഹോളും ഷാഫ്റ്റും ആയി സ്റ്റാൻഡേർഡ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു നമ്മൾ ഇത് കാണാൻ ശ്രമിക്കുകയാണ് ഈ ഗ്രേഡുകൾ അല്പം കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇവ ടോളറൻസ് ഗ്രേഡുകളാണ് ടോളറൻസിന്റെ അടുത്ത വർഗ്ഗീകരണം ബൈലാറ്ററൽ യൂണി ബൈ ആയിരിക്കും യൂണി എന്നാൽ ഒരു വശം ബൈ എന്നാൽ ഇരുവശത്തും ടോളറൻസ് വിതരണം അടിസ്ഥാന വശത്തിന്റെ ഇരുവശത്തും സ്ഥിതിചെയ്യുമ്പോൾ അതിനെ ബൈലാറ്ററൽ ടോളറൻസ് 40 പ്ലസ് അല്ലെങ്കിൽ മൈനസ് 0 2 മില്ലിമീറ്റർ എന്ന് വിളിക്കുന്നു ഇത് പോസിറ്റീവ് വശത്തും അതുപോലെ നെഗറ്റീവ് സൈഡ് മില്ലിമീറ്ററിലും സ്ഥിതിചെയ്യുന്നു ഇത് ഒരു ഷാഫ്റ്റാണ് ഇത് ഷാഫ്റ്റ് ആണ് ശരി അതിനാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അടിസ്ഥാന വശത്തിന്റെ ഇരുവശങ്ങളിലും വ്യത്യാസപ്പെടാൻ അനുവദിച്ച ഭാഗത്തിന്റെ അളവ് പക്ഷേ അതിനായി ഒരുപോലെ വ്യത്യാസപ്പെട്ടു കിടക്കുക ആയിരിക്കില്ല ശരി ഉദാഹരണത്തിന് വ്യാസം 40 പ്ലസ് 0 2 മൈനസ് 0 5 മില്ലിമീറ്റർ എന്ന് പറയുന്ന ഒരു സാധ്യതയുണ്ട് അതിന്റെ വ്യാസം 40 2 മില്ലിമീറ്റർ ആകാം അല്ലെങ്കിൽ 39 5 മില്ലിമീറ്റർ ആകാം ഇത് 2 ഉം ഇത് 8 ഉം ആണ് ശരി ഇതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇത് ആകർഷകമാകേണ്ടതില്ല അസംബ്ലി നിലവിൽ വരുമ്പോൾ ഒരു ഹോൾ സ്ഥാപിക്കുന്നതിൽ ഓപ്പറേറ്റർക്ക് പരിധി വലുപ്പ പരിധിയുടെ സമ്പ്രദായം പൂർണ്ണമായി പ്രയോജനപ്പെടുത്താൻ കഴിയും ഈ ടോളറൻസ്കളെല്ലാം നിർമ്മാണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പൊതുവെ ഉൽപാദനത്തെ 2 പ്രധാന പ്രവർത്തനങ്ങളായി തരംതിരിക്കുന്നു ഒന്ന് ഒരു ഭാഗം ഉൽപാദിപ്പിക്കുന്നു മറ്റൊന്ന് അസംബ്ലി ആണ് ഇന്നത്തെ സാഹചര്യമാണ് പരസ്പര കൈമാറ്റം എന്നത് എല്ലാ ഭാഗങ്ങളും ഫാക്ടറിക്ക് പുറത്ത് ഉൽപാദിപ്പിക്കുന്നത് ഫാക്ടറിയുടെ ഉള്ളിൽ അസംബ്ലി മാത്രമേ നടക്കൂ അസംബ്ലി നടക്കുമ്പോൾ ഭാഗങ്ങൾ ടോളറൻസോടെ നിർമ്മിക്കേണ്ടതുണ്ട് ഭാഗങ്ങൾ ടോളറൻസോടെ ഉൽപാദിപ്പിക്കണമെങ്കിൽ ഉൽപാദനച്ചെലവ് കുറയുന്നു മാത്രമല്ല സ്വഭാവത്താൽ നിങ്ങൾക്ക് ഒരേ ഭാഗമോ സമാനമായ ഭാഗമോ വീണ്ടും ഉൽപാദിപ്പിക്കാൻ കഴിയില്ല അതിനാൽ യന്ത്രം അടിസ്ഥാന വലുപ്പത്തിലേക്ക് സജ്ജമാക്കിയിരിക്കുന്ന മാസ് ഉൽപാദനത്തിൽ ഈ സംവിധാനം സാധാരണയായി തിരഞ്ഞെടുക്കുന്നു ടോളറൻസ് നിർണ്ണയിക്കുന്നത് ഒന്നിലധികം തലങ്ങളിൽ ടോളറൻസ് സ്ഥാപിക്കുന്നതിലൂടെയാണ് ഇത് കോമ്പൌണ്ട് ടോളറൻസ് എന്നറിയപ്പെടുന്നു അടുത്ത പ്രഭാഷണത്തിൽ കോമ്പൌണ്ട് ടോളറൻസ് എന്താണെന്ന് നമ്മൾക്ക് തുടരാം